ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൻറെ കോഴ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ആദ്യത്തെ പ്രഭാഷണം ആണ് അതിനാൽ നിങ്ങൾ ഈ കോഴ്സിന്റെ വിശാലമായ അവലോകനം കണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് ഈ പ്രത്യേക പ്രഭാഷണ ശ്രേണികളിൽ എന്താണ് ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് എന്തൊക്കെയാണ് അതിൻറെ മുഖ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണു സമീപകാല പ്രവണതകൾ ഇതിന്റെ ഒക്കെ മൊത്തത്തിൽ ഉള്ള ചിത്രം തരുവാൻ നമ്മൾ ശ്രമിക്കും അതിനുശേഷം അവസാനം വേണമെങ്കിൽ എന്തൊക്കെയാണ് വ്യത്യസ്ത രീതിയിലുള്ള ഗവേഷണ അവസരങ്ങൾ അല്ലെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് അടിസ്ഥാന മാതൃകയെ പറ്റിയും പെട്ടെന്ന് ഒരു അവലോകനം നടത്താം ഇപ്പോൾ നിങ്ങൾ 2005 ACM കമ്പ്യൂട്ടിംഗ് കരിക്കുലം നിർവചിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ അവർ കമ്പ്യൂട്ടിങ്ങിനെ നിർവചിക്കാൻ പറ്റിയ പൊതുവായ രീതിയിലാണ് ലക്ഷ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനം പരിഹരിക്കാനുള്ള രീതി ആയിട്ടാണ് അല്ലേ അപ്പോൾ അതിൻറെ അർത്ഥം അതിൽ ഹാർഡ്വെയർ ഇൻറ്റലിജൻഡ് ആക്കുന്നതുപോലെ പല കാര്യങ്ങൾക്കും ഉൾപ്പെടുത്താം അതുകൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള കമ്പ്യൂട്ടിംഗ് തരുന്നു വിഭവങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല ഏത് വിഭാഗത്തിൽ ഉള്ള ആളുകളാണ് അത് ഉപയോഗിക്കുന്നത് എന്നതിൻറെ കൂടെ അടിസ്ഥാനത്തിലാണ് ഹൈ എൻഡ് തുടങ്ങി ഒരു വിദ്യാർത്ഥിക്കോ എന്തിന് ഒരു വീട്ടമ്മയ്ക്ക് അല്ലെങ്കിൽ പൊതുവിൽ ഒരു പൌരനോ അവരുടെ പ്രയോജനത്തിനോ ഏതെങ്കിലും പ്രത്യേകമായ ആവശ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുകയോ ചെയ്യാം ഈ കമ്പ്യൂട്ടിംഗിൻറെ ആമുഖം തരുന്നത് അതിനാൽ വസ്തുക്കളുടെ സ്റ്റാൻഡേർഡൈസേഷൻ മാതൃകകൾ

പിന്നീട് ക്ലൌഡിൻറെ എന്തൊക്കെയാണ് ആവശ്യകതകൾ എന്നിവയാകാം അതിനാൽ ഇപ്പോൾ നിങ്ങൾ ഉപഭോക്താവിനെയോ ദാതാവിനെയോ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾക്ക് വേണ്ടി നോക്കിയാൽ ക്ലൌഡ് സേവനങ്ങൾ മാത്രമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏതുതരത്തിലുള്ള സേവനങ്ങൾക്ക് ആയാലും നമ്മുടെ സേവന ദാതാവും ഉപഭോക്താവും തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉടമ്പടി ആവശ്യമാണ് അതെന്തെന്നാൽ നമ്മൾ പറയുന്ന സേവന തരത്തിലുള്ള ഉടമ്പടി ഉദാഹരണത്തിന് ഇന്ന് ഞാൻ പറയുകയാണ് ഞാൻ 100 അല്ലെങ്കിൽ 100 ശതമാനത്തിനടുത്ത് ലഭ്യമായിരിക്കും അത് എൻറെ കാര്യത്തിന് ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ് ഒരു പരീക്ഷ നടക്കുകയാണ് എനിക്ക് ആവർത്തന സേവനങ്ങൾ ആണ് ആവശ്യം അതുകൊണ്ട് വിഭവങ്ങളുടെ ലഭ്യത അത് 100 അല്ലെങ്കിൽ 100 ശതമാനത്തിനടുത്ത് ആയിരിക്കും പക്ഷേ എൻറെ പരിശീലന സെഷൻ നടക്കുമ്പോൾ അപ്പോൾ ലഭ്യതയുടെ ആവശ്യം ചിലപ്പോൾ കുറഞ്ഞ് 90 ശതമാനം ആവാം ഇപ്പോൾ ലഭ്യതയ്ക്കനുസരിച്ച് വിഭവങ്ങളുടെ പൂളിംഗ് എത്രയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ആശങ്കകൾ സേവനങ്ങളുടെ നിലവാരത്തിലെ ആശങ്കകൾ അതുപോലെതന്നെ ഉള്ള പലവിധ ആശങ്കകൾ നമ്മൾ ഈ സേവന രീതിയിലുള്ള കരാറിലും മറ്റു കാര്യങ്ങളിലും ചർച്ച ചെയ്യാൻ ശ്രമിക്കാം ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ക്ലൌഡോനോമിക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അതു ഉപയോഗപ്രദമാകും എന്നുള്ളത് എപ്പോഴും നല്ലത് ആവണമെന്നില്ല നമ്മൾ കാണുന്നത് പോലെ തന്നെ സത്യമാണോ എന്നുള്ളത് ഉദാഹരണത്തിന് ഒന്ന് അനുമാനിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം 220 കിലോമീറ്റർ നിങ്ങളുടെ ഓഫീസിലൊ ജോലിക്കൊ വേണ്ടി യാത്ര ചെയ്യണം എങ്കിൽ ഒരു കാർ വാങ്ങിക്കുക എന്നതാവും സാമ്പത്തികമായി നല്ലത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ 50 കിലോമീറ്റർ അല്ലെങ്കിൽ 100 കിലോമീറ്റർ മാത്രമാണ് സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു കാർ വാങ്ങിക്കുന്നത് ഒരിക്കലും സാമ്പത്തികമായി നല്ലതാവില്ല അല്ലേ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു കാർ വാടകയ്ക്ക് എടുക്കുന്നതായിരിക്കും കൂടുതൽ സാമ്പത്തികമായി നല്ലത് അതുപോലെ ഞാൻ വാടകയ്ക്ക് എടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതിനുപിന്നിൽ എന്തെങ്കിലും സാമ്പത്തിക മാതൃക ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ എൻറെ ഒരു സംഘടനാ കാഴ്ചപ്പാടിൽനിന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ഒരു പ്രത്യേക കാഴ്ചപ്പാടിൽനിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടോ വിഭവങ്ങൾ വാങ്ങുന്നതാണോ വാടകയ്ക്ക് എടുക്കുന്നതാണോ സാമ്പത്തികമായി നല്ലത് അല്ലെങ്കിൽ ഈ വസ്തുക്കളുടെ സാമ്പത്തിക മാതൃക എന്താണ് എന്നുള്ളത് അതിനാൽ ഈ തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്ലൌഡ് വസ്തുക്കൾ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കും ഉദാഹരണത്തിന് ഒരു പുസ്തകം പേന മുതലായവ അതുകൊണ്ട് ഞാൻ എത്രത്തോളം സാധനങ്ങൾ സംഭരിക്കണം അല്ലെങ്കിൽ അത് ഞാൻ എത്രത്തോളം എന്നെ അവതരിപ്പിക്കുന്നു മുതലായവയെ അനുസരിച്ചിരിക്കും അല്ലെങ്കിൽ അതുപോലെ എൻറെ കടക്കു വേണ്ടി ഞാൻ പട്ടിണി കിടക്കുന്ന ഒരു അവസരമോ അല്ലെങ്കിൽ എൻറെ കട മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു അവസരവും വരാൻ പാടില്ല അപ്പോൾ ഞാൻ ഭാരം കൂട്ടാൻ പാടില്ല എനിക്ക് അതിനുവേണ്ടി നല്ല രീതിയിലുള്ള വിഭവങ്ങളുടെ മാനേജ്മെൻറ് അതുപോലെതന്നെ വളരെയധികം വിഭവങ്ങൾ ഉണ്ട് അപ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ് ഞാൻ സൂക്ഷിക്കേണ്ടത് നിയന്ത്രിക്കേണ്ടത് മുതലായവ ഞാൻ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഏതൊരു വിഭാഗത്തിനും വസ്തുക്കളിലേക്ക് ഒരു അന്തർലീനമായ ചെലവ് ഉണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് ഉപയോഗമില്ലാതെ ഒരു വലിയ അളവിലുള്ള വിഭവങ്ങൾ നിയന്ത്രിക്കണം എങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് അത് വിഭവങ്ങളുടെ വിലയ്ക്ക് ഉള്ള ചിലവ് ആണോ അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്നതിൽ ഉള്ള ചിലവ് ആണോ കൂടുതൽ എന്നാണ് അതുകൊണ്ട് ഈ വിഭവങ്ങളെ ഉചിതമായി അല്ലെങ്കിൽ ഒപ്ടിമലായി പ്രശ്നങ്ങൾ എന്നാണ് ഇവിടെ ഡേറ്റ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലുള്ള സേവനങ്ങൾ കൊടുക്കേണ്ടത് എന്ന് നോക്കണം അപ്പോൾ എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ഇതിനായി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഉദാഹരണത്തിന് നമ്മൾ സാധാരണയായി പലതരത്തിലുള്ള സംഭരണങ്ങൾ സേവനമായി ഉപയോഗിക്കാറുണ്ട് അതുപോലെതന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ജനപ്രിയമായ ഒന്നാണ് ട്രോപ്ബോക്സ് ഉള്ളത് എന്ന് നോക്കണം ക്ലൌഡിൻറെ സംവിധാനം ഉപയോഗിക്കാം അല്ലെ എൻറെ പേഴ്സണൽ സിസ്റ്റം അവിടെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ് പ്രവേശന നിയന്ത്രണം വിശ്വാസം മതിപ്പ് അപകടസാധ്യതകൾ ഇവയെക്കുറിച്ചുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് അവിടെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഉദാഹരണത്തിന് പ്രവേശന നിയന്ത്രണം എങ്ങനെയാണ് കൊടുക്കേണ്ടത് അത് നമ്മുടെ പ്രവേശന നിയന്ത്രണ സംവിധാനം മാനദണ്ഡങ്ങൾ തന്നെയാണോ നൽകേണ്ടത് എന്നുള്ളതാണ് അതുകൂടാതെ പങ്ക് അടിസ്ഥാനമാക്കിയ പ്രവേശന നിയന്ത്രണ സംവിധാനം ആണോ ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ സുരക്ഷ കൂട്ടാനായി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഒരു ക്ലൌഡ് വാങ്ങുന്നതു എങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഈ വിശ്വാസം മതിപ്പ് അപകടസാധ്യതകൾ ഇത് മൂന്നും ചേരുമ്പോഴാണ് ത്രികോണത്തിന് മൂന്ന് നോഡുകൾ കുറിച്ചും കാണാൻ ശ്രമിക്കാം നമുക്ക് ഇനി എന്തൊക്കെ ഓപ്പൺസോഴ്സ് സമീപകാല പ്രവണതകളെ കുറിച്ചും നമുക്ക് നോക്കാം അപ്പോൾ ഗവേഷണത്തിൽ താത്പര്യമുള്ളവർക്കൊ പിജി തലത്തിലോ അല്ലെങ്കിൽ യുജി തലത്തിലോ പ്രൊജക്റ്റ് നൽകാൻ ശ്രമിക്കും പ്രഭാഷണങ്ങളിലൂടെ പോകുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും അപ്പോൾ ഇതുവഴി നമുക്ക് പെട്ടെന്ന് ഒരു അവലോകനം കിട്ടി എന്തൊക്കെയാണു ഈ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് അവിടെ ആദ്യമേ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനു പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അത് തികച്ചും പുതിയൊരു കുഞ്ഞ് ആണോ അല്ലെങ്കിൽ പുതിയൊരു കാര്യം ആണോ അല്ലെങ്കിൽ അത് സംയോജിപ്പിച്ചതാണോ അല്ലെങ്കിൽ അത് വസ്തുക്കളിലൂടെ പരിണമിചതാണോ എന്നുള്ളതാണ് അല്ലേ അപ്പോൾ നിങ്ങൾ കാണുന്നത് പലതും വിവിധ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിൽ മാതൃകയായിട്ടോ കുറെക്കാലം നിൽക്കുന്ന ഒന്നായിട്ടോ കാണാൻ കഴിയും അപ്പോൾ ആദ്യമായി എല്ലാ വസ്തുക്കളുടെയും മാതാവ് എല്ലാ വസ്തുക്കളും കൂടി നമ്മൾ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടട് കുറിച്ചും സംസാരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും പല ആവശ്യങ്ങൾ ഉള്ള വിവിധ വികസനങ്ങൾ ഉണ്ട് എല്ലാത്തിനും അതിൻറെതായ പ്രയോജനങ്ങളുണ്ട് ചില പോരായ്മകളുണ്ട് അവ മറ്റു ചിലതിനെ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട് ഇത് നമുക്ക് കുറച്ച് വേഗത്തിൽ പോകാം കാരണം പലതും നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ കമ്പ്യൂട്ടിംഗിലേക്ക് സമർപ്പിക്കുമ്പോൾ നടപ്പിലാക്കി നമുക്ക് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ കാണുവാനോ കഴിയുമായിരുന്നു അതുകൊണ്ട് പ്രാഥമികമായി ഇതിനെ യുക്തിപരമായി ഒറ്റ പ്രോസസിങ് ലഭ്യത ആണ് അപ്പോൾ അടിസ്ഥാനമായി ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റങ്ങളെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള നിർവചനങ്ങൾ ലഭ്യമാകും അപ്പോൾ ഇതുപോലെ ഒരുപാടുണ്ട് അതിലൊരെണ്ണം പറയുന്നത് അവിടെ സ്വന്തം ലോക്കൽ മെമ്മറി ഉണ്ടായിരിക്കും ഇവിടെ പലതരത്തിലുള്ള ഉദാഹരണങ്ങളുണ്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഇതിനകം ഉള്ളത് ആയിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഇത് ഒരു താൽക്കാലിക സ്ഥാപനമാണെന്ന് ഈ ദിവസങ്ങളിൽ താൽക്കാലിക നെറ്റ്വർക്ക് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങൾ അവർ ചെയ്യുന്നു ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റങ്ങളിൽ സാധാരണ ലോഡുകൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഇങ്ങനെയുള്ളവയുടെ പൊതുവായുള്ള സവിശേഷത അല്ലെങ്കിൽ പൊതുവായുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം ആണെന്നാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻറെ ഇതിനകത്ത് ഭാഗികമായ പങ്ക് മാത്രമേ ഉള്ളൂ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിലെ ഒരു ഉപവിഭാഗമായി കണക്കാക്കാം ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിന് വളർച്ച അല്ലെങ്കിൽ വികസനമാണ് നമ്മുടെ പ്രചോദനം ഇപ്പോഴേക്ക് നമുക്ക് നിർത്തിയിട്ട് നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ ചർച്ച തുടരാം